പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ കോഴ്സിലേക്ക് സ്വാഗതം ഇത് ആഴ്ച 7 ആണ് ആറാം ആഴ്ചയിലെ ഉള്ളടക്കം നോക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ നമ്മൾ ട്വിറ്ററിലെ ലിങ്ക് ഫാർമിംഗ് സ്പാമും ലിങ്ക് ഫാർമിംഗ് സവിശേഷത എന്താണെന്നും കണ്ടെത്താൻ കഴിയുന്ന ചില ജോലികൾ നോക്കുകയും ചെയ്തു ഈ ആഴ്ച അതേ വിഷയത്തെക്കുറിച്ച് നമ്മൾ തുടരും നമ്മൾ അത് പൂർത്തിയാക്കി മറ്റൊന്നിലേക്ക് നീങ്ങും കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ലിങ്ക് ഫാമിംഗ് എന്താണെന്നും ലിങ്ക് ഫാമിംഗിനെക്കുറിച്ചുള്ള ചില ഡാറ്റയെക്കുറിച്ചും ഞാൻ കാണിച്ചുതന്നു അതിനാൽ X ആക്സിസിൽ നമുക്ക് സ്പാം ഫോളോവർ നോഡ് റാങ്ക് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട് സ്പാം പിന്തുടരുന്ന അക്കൌണ്ടുകൾ സ്പാം പിന്തുടരുന്നതിനുള്ള സാധ്യതയാണ് ഞാൻ കാണിച്ചുതന്ന എ ബി സി ഡി ഇ എഫ് ഗ്രാഫുകൾ നിങ്ങൾ ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്പാം ഫോളോവർ എന്നും സ്പാം ഫോളോവേഴ്സ് എന്നും വിളിക്കപ്പെടുന്ന ചിലത് ഉണ്ടായിരുന്നു അതിനാൽ എക്സ് ആക്സിസ് എന്നത് സ്പാം ഫോളോവർ നോഡ് റാങ്ക് ആണ് അത് അക്കൌണ്ടിന്റെ റാങ്ക് ആണ് അത് ഒരു സ്പാം ഫോളോവർ ആണ് Y ആക്സിസിൽ നമുക്ക് ഭിന്നസംഖ്യ ലിങ്കുകളിൽ തിരിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഇത് ഹ്രസ്വമായി പരാമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളെ പിന്തുടരുമ്പോൾ നിങ്ങൾ എന്നെ പിന്തുടരാനുള്ള സാധ്യത പരസ്പരമാണ് ഞാൻ നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തിരികെ പിന്തുടരാനുള്ള സാധ്യത എന്താണ് അതാണ് y ആക്സിസിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതിനാൽ സ്പാമർമാർക്കും സ്പാം ഫോളോവർ നോഡ് റാങ്കുകൾക്കുമിടയിലുള്ള ലിങ്കുകളിൽ പരസ്പരവിരുദ്ധമായ ഒരു ഗ്രാഫ് നമുക്കുണ്ട് അതായത് നിങ്ങൾ 100000 സ്പാം ഫോളോവേഴ്സ് അക്കൌണ്ടുകൾ നോക്കിയാൽ എല്ലാ ലിങ്കുകളിലും 60 ശതമാനവും സ്പാമർമാർ സ്വന്തമാക്കിയതാണ് സ്പാമർമാർ ഏറ്റെടുത്ത എല്ലാ ലിങ്കുകളുടെയും 60 ശതമാനവും 100000 സ്പാം ഫോളോവേഴ്സ് അക്കൌണ്ടുകളാണ് അതിനാൽ സ്പാമർമാർക്കായി സൃഷ്ടിക്കപ്പെട്ട 100 ലിങ്കുകൾ ഉണ്ടെങ്കിൽ അവയിൽ 60 ശതമാനവും സ്പാം ഫോളോവേഴ്സിൽ നിന്നാണ് വരുന്നത് ഇത് യഥാർത്ഥത്തിൽ സ്പാമർമാരെ പിന്തുടരുന്ന ഒരു അക്കൌണ്ടാണ് മികച്ച സ്പാം അനുയായികൾ സ്പാമർമാർ സ്ഥാപിച്ച എല്ലാ ലിങ്കുകളും പരസ്പരം കൈമാറുന്നു അതിനാൽ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് വായിക്കാനുള്ള മാർഗ്ഗം x ആക്സിസിൽ 1 10 100 1000 10000 100000 1 ദശലക്ഷം എന്നിങ്ങനെയാണ് ലോഗ് സ്കെയിൽ ഉണ്ട് അങ്ങനെയാണ് x ആക്സിസിൽ ഇങ്ങനെ ആണ്എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരാനുള്ള സാധ്യതയാണ് y ആക്സിസ് ഇൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ആദ്യത്തെ മൂല്യം 1 അല്ലെങ്കിൽ 1 മുതൽ 10 വരെ നോക്കുകയാണെങ്കിൽ ഇവിടെ സാധ്യതകൾ ഏതാണ്ട് 1 ന് അടുത്താണ് ഇത് മുൻനിരയിലുള്ള സ്പാം അനുയായികളാണ് നിങ്ങളെ തിരികെ പിന്തുടരാനുള്ള സാധ്യതയുള്ള അക്കൌണ്ടുകൾ വളരെ ഉയർന്നതാണ് നിങ്ങൾ സ്പാം അനുയായികളെ നോഡ് റാങ്കിൽ ക്രമീകരിച്ചാൽ അത് പിന്തുടരുന്നവരുടെ എണ്ണമാണ് അവർക്ക് ഉണ്ടായിരിക്കാനിടയുള്ളത് വളരെ ഉയർന്നതാണ് ഒരു സ്പാമറിനെ പിന്തുടരുന്ന ഒരു സ്പാം അനുയായിയുടെ സംഭാവ്യത വളരെ ഉയർന്നതാണെന്നാണ് ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് സ്പാമർമാർ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഇതാണ് ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരികെ പിന്തുടരാനുള്ള അവസരമുണ്ട് സ്പാമർമാർ നിങ്ങളെപ്പോലുള്ളവരെ പിന്തുടരുകയും നിങ്ങൾ എന്നെ പിന്തുടരാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് അതിനാൽ സ്പാമർമാർ അവരുടെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനർത്ഥം ലിങ്ക് ഫാമിംഗിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയത്തിൽ എന്റെ നോഡ് റാങ്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സ്പാമർമാരുടെ നോഡ് റാങ്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടത് ഇതാണ് അത് കാരണം അവരുടെ ഉള്ളടക്കം മുകളിൽ ദൃശ്യമാകും അവരുടെ ഉള്ളടക്കം കൂടുതൽ പ്രചാരത്തിലാകുന്നു അതിനാൽ അവർക്ക് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കും ഇത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ സ്പാമറുകളുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ ഞാൻ അതേ ഡാറ്റയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ലിങ്ക് ഫ്രെയിമറുകൾ എന്താണ് ചെയ്യുന്നത് സ്പാം പിന്തുടരുന്നവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരു ഗ്രാഫ് നോക്കാം ഈ ഗ്രാഫ് പ്രതികരണത്തിന്റെ സംഭാവ്യത കാണിക്കുന്നു അത് ഇൻ ഡിഗ്രി ഉപയോഗിച്ച് ഒരു അഭ്യർത്ഥനയോട് പ്രതികരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഉള്ള ലിങ്കുകളുടെ എണ്ണമാണ് ഡിഗ്രി അതിനാൽ സ്പാമർമാർ ടാർഗെറ്റുചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും ഡിഗ്രിയിലുള്ള പ്രതികരണത്തിന്റെ സാധ്യതയാണ് ഇത് കാണിക്കുന്നത് ഏകദേശം 107 ഉപയോക്താക്കളെ സ്പാമർമാർ ടാർഗെറ്റുചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത എന്താണ് കുറഞ്ഞ ഇൻ ഡിഗ്രി ഉള്ള ഉപയോക്താക്കൾ സ്പാമർമാരിൽ നിന്നുള്ള ലിങ്കുകളോട് പ്രതികരിക്കുന്നില്ല നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് 100 ൽ കുറവോ 1000 ൽ കുറവോ എടുക്കാം എനിക്ക് 1000 ൽ താഴെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ സ്പാമറിനെ തിരികെ പിന്തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്ക് വീണ്ടും ഗ്രാഫിൽ നോക്കാം നമുക്ക് മൂല്യം 107 വരെയുള്ള ശക്തി നോക്കാം ആ ഉപയോക്താക്കളുടെ സംഭാവ്യത 10 100 മുതൽ 1000 വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആരെങ്കിലും തിരികെ വരുന്നതിന്റെ സാധ്യത സ്പാമർ യഥാർത്ഥത്തിൽ 40 ശതമാനവും 50 ശതമാനവും 60 ശതമാനവുമാണ് നിങ്ങൾ ഗ്രാഫിന്റെ പിന്നീടുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ x ആക്സിസിലും y ആക്സിസിലും ഏകദേശം 0 7 ആണ് അനുയായികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രതികരണശേഷി വർദ്ധിക്കുന്നു പിന്തുടരുന്നവരുടെ എണ്ണമാണ് ഇൻ ഡിഗ്രി അനുയായികൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു അഭ്യർത്ഥന അയക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ പിന്തുടരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഞാൻ കാര്യം ആവർത്തിക്കട്ടെ ഈ ഗ്രാഫിലെ x ആക്സിസിൽ നമ്മൾ പിന്തുടരുന്നത് പിന്തുടരുന്നവരുടെ എണ്ണമാണ് പിന്തുടരുന്നതിന് ഒരു അഭ്യർത്ഥന അയയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പിന്തുടരുമ്പോഴോ പ്രതികരിക്കാനുള്ള സാധ്യതയാണ് Y ആക്സിസ് ഇൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് നിങ്ങൾ എന്നെ പിന്തുടരാനുള്ള സാധ്യതയാണ് കുറഞ്ഞ ഡിഗ്രി ഉള്ള ഉപയോക്താക്കൾ സ്പാമർമാരോട് പ്രതികരിക്കുന്നില്ല അതേസമയം വലിയ ഡിഗ്രി ഉള്ള ഉപയോക്താക്കൾ അല്ലെങ്കിൽ കൂടുതൽ അനുയായികളുള്ള ഉപയോക്താക്കൾ കൂടുതൽ പിന്തുടരുന്നു അതിനാൽ അവർ ചെയ്തത് ഈ രണ്ട് കാര്യങ്ങളും നോക്കിയ ശേഷം സ്പാമർ ഭാഗം പിന്തുടരുന്ന ഒരാൾക്ക് സാധ്യത കൂടുതലാണ് അവർ യഥാർത്ഥത്തിൽ ആദ്യത്തെ അഞ്ച് ലിങ്ക് ഫാർമേഴ്സ് ഇനെ നോക്കി അവർ ബയോസ് നോക്കി അക്കൌണ്ടുകൾ എന്തൊക്കെയാണ് ഈ അക്കൌണ്ടുകൾ എന്താണെന്നതിന്റെ ഒരു ബോധം ഇവിടെയുണ്ട് ലാറി വെന്റ്സ് ഇന്റർനെറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ജൂഡി റേ വാസ്സർമാൻ കലാകാരൻ സ്ഥാപകൻ Larry Wentz Internet affiliate Marketing Judy Rey Wasserman artist founder അതിനാൽ ഇവയെല്ലാം സ്പാമറുകളിലേക്കുള്ള ലിങ്കുകളുള്ള അക്കൌണ്ടുകളാണ് പേജ് റാങ്ക് അനുസരിച്ച് സ്പാമറുകളിലേക്കുള്ള ലിങ്കുകൾ അനുസരിച്ച് ഫാർമേഴ്സ് ആദ്യ അഞ്ച് ലിങ്ക് നൽകുന്നു പേജ്റാങ്ക് എന്ന വാക്ക് മറ്റൊന്നുമല്ല നിങ്ങൾ പുറത്തായിരിക്കേണ്ട ലിങ്കുകൾ ഇത് ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയുമാണ് ഇങ്ങനെയാണ് ഒരു പേജ് റാങ്ക് കാണപ്പെടുന്നത് സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ള ക്രിസ് ലാറ്റ്കോയും പോൾ മെറിവെതറും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് ഉടൻ സംസാരിക്കാം ആരോൺ ലീ സോഷ്യൽ മീഡിയ മാനേജർ Chris Latko interested in Tech will follow back and Paul Merriwether helping others let us talk soon Aaron lee social media manager അതിനാൽ ഇത് അടിസ്ഥാനപരമായി അഞ്ച് ഫാർമേഴ്സിന്റെ ഉപയോക്താക്കൾ എങ്ങനെയെന്ന് കാണിക്കുന്നു ഇത് മറ്റുള്ളവരുമായി ഈ ലിങ്കുകൾ സൃഷ്ടിക്കുകയും മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ മാനേജർ പിന്തുടരും ഇവയാണ് അക്കൌണ്ടുകളുടെ തരം നിങ്ങൾ പേജ് റാങ്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ലിങ്കുകൾ കൂടുതലാണ് ബരാക് ഒബാമ 2012 പ്രചാരണ സ്റ്റാഫ് ബ്രിട്നി സ്പിയേഴ്സ് NPR രാഷ്ട്രീയം യുകെ പ്രധാനമന്ത്രി ജെറ്റ്ബ്ലൂ എയർവേസ് Britney Spears NPR politics UK prime minister JetBlue Airways അതിനാൽ ഇത് യഥാർത്ഥ സ്പാമറുകൾ മാത്രമല്ല ക്ഷുദ്രകരമായ ഉദ്ദേശ്യമാണ് യഥാർത്ഥത്തിൽ ലിങ്ക് ഫാമിംഗ് ചെയ്യുന്നതെന്നും ഇത് കാണിക്കുന്നു നിയമാനുസൃതമായ അക്കൌണ്ടുകളും ജനപ്രിയ അക്കൌണ്ടുകളും പോലും യഥാർത്ഥത്തിൽ ലിങ്ക് ഫാമിംഗ് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് അവ അവരുടെ അനുയായികളെ വർദ്ധിപ്പിക്കുന്നു അവർ യഥാർത്ഥത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരുതരം വിപ്ലവമാണ് അതായത് ബയോ നോക്കുക ലിങ്ക് ഫാർമേഴ്സിന്റെ അക്കൌണ്ടുകൾക്ക് ഇവ ഏതുതരം ഉപയോക്താക്കളാണെന്നതിനെക്കുറിച്ച് ചില ധാരണകളുണ്ട് രസകരമെന്നു പറയട്ടെ മുൻനിര ഫാർമേഴ്സ് സ്പാമർമാരല്ല വിശകലനത്തിന്റെ ഘട്ടത്തിൽ അവർ 100000 ലിങ്ക് ഫാർമേഴ്സിനെ നോക്കി 18826 സസ്പെൻഡ് ചെയ്തു ട്വിറ്റർ മറ്റൊരു കാര്യം ചെയ്തു ഇവയെല്ലാം യഥാർത്ഥത്തിൽ സ്പാമർമാരാണെന്ന് അവർ കണ്ടെത്തി ഇവ യഥാർത്ഥത്തിൽ ക്ഷുദ്ര അക്കൌണ്ടുകളാണ് അതിനാൽ അവർ അത് താൽക്കാലികമായി നിർത്തിവച്ചു 4768 അക്കൌണ്ടുകൾ കണ്ടെത്തിയില്ല കാരണം അവർ അക്കൌണ്ട് നിർജ്ജീവമാക്കിയേക്കാം അക്കൌണ്ട് നിലവിലില്ല അതേസമയം 100000 ലിങ്ക് ഫാർമേഴ്സിന്റെ അക്കൌണ്ടിന്റെ 76 ശതമാനം ആണ് ഇത് ഈ നൂറായിരം ലിങ്ക് ഫാർമേഴ്സിനെ അവർക്ക് എങ്ങനെ ലഭിക്കും അവർ നോഡ് റാങ്കിന്റെ ഗ്രാഫ് ചെയ്യുന്നു ഏറ്റവും പ്രശസ്തമായ ഫാർമേഴ്സ് ആരാണ് എന്നതിന്റെ ഗ്രാഫ് അവർ ചെയ്യുന്നു അവർക്ക് ഈ ലക്ഷക്കണക്കിന് ലിങ്ക് ഫാർമേഴ്സിനെ ലഭിച്ചു ഇതിൽ 76 ശതമാനം പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രസകരമെന്നു പറയട്ടെ അതിൽ 235 എണ്ണം പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടുകളാണ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അക്കൌണ്ടിനോട് ചേർന്ന് നീല ടിക്ക് ഉള്ള അക്കൌണ്ടുകളാണ് പരിശോധിച്ചുറപ്പിച്ച അക്കൌണ്ടുകൾ നിയമാനുസൃതമായ അക്കൌണ്ടുകളാണിത് അതായത് അവർ യഥാർത്ഥ ആളുകളാണെന്ന് അവർ കാണിക്കുന്നു ഉദാഹരണം അമിതാഭ് ബച്ചന് യഥാർത്ഥ അക്കൌണ്ട് അല്ലെങ്കിൽ പരിശോധിച്ച അക്കൌണ്ട് ഉണ്ട് ഒബാമയ്ക്ക് ഒരു സ്ഥിരീകരിച്ച അക്കൌണ്ട് ഉണ്ട് അവരാണ് അവർ പറയുന്ന യഥാർത്ഥ ആളുകൾ 235 ന്റെ 100 റാൻഡം ഉപയോക്താക്കളെ അവർ സ്വമേധയാ പരിശോധിച്ചു ഈ 100 റാൻഡം ഉപയോക്താക്കളെ പരിശോധിക്കാൻ അവർക്ക് ചില ഉപയോക്തൃ സന്നദ്ധപ്രവർത്തകരെ ലഭിക്കുകയും ഉപയോക്താക്കളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും ചെയ്തു 86 യഥാർത്ഥ അക്കൌണ്ടുകളാണെന്ന് അവർ കണ്ടെത്തി അവർക്കത് കാണാൻ ഒന്നിലധികം ആളുകളെ ലഭിച്ചു അതിനാൽ ഇത് ഒരു യഥാർത്ഥ അക്കൌണ്ട് ആണെന്ന് ഒന്നിലധികം ആളുകൾ പറഞ്ഞാൽ അത് ഒരു യഥാർത്ഥ അക്കൌണ്ടാകാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് 86 യഥാർത്ഥ ഉപയോക്താക്കളിൽ ആളുകൾക്ക് ബിസിനസ്സ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സംരംഭകത്വം പണം സോഷ്യൽ മീഡിയ എന്നിങ്ങനെ അക്കൌണ്ട് ഉണ്ടെന്ന് അവർ കണ്ടെത്തി 86 യഥാർത്ഥ അക്കൌണ്ടുകൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇവയാണ് ഇത് നിങ്ങൾക്ക് ബോധം നൽകുന്നു മികച്ച അഞ്ച് ലിങ്ക് ഫാർമേഴ്സ് സ്ലൈഡിൽ നമ്മൾ കണ്ട ട്വിറ്റർ അക്കൌണ്ട് ബയോസുകളുമായി ഇത് നന്നായി ബന്ധിപ്പിക്കുന്നു അതിനാൽ ഫാർമേഴ്സ് യഥാർത്ഥ ലോകത്ത് നിൽക്കുന്നവരല്ല മറിച്ച് അവ യഥാർത്ഥ അക്കൌണ്ടുകളാണെന്നും അവ യഥാർത്ഥത്തിൽ പരിശോധിച്ച അക്കൌണ്ടുകളാണെന്നും ഇത് കാണിക്കുന്നു 100000 ലിങ്ക് ഫാർമേഴ്സ് സ്പാമർമാർക്കും ക്രമരഹിതമായ സാമ്പിളുകൾക്കുമായി ഇൻ ഡിഗ്രി ഫോളോവേഴ്സ് എങ്ങനെയെന്ന് നോഡ് ഡിഗ്രി വിതരണത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം ശരി ഇവിടെ എന്താണ് ലക്ഷ്യം തങ്ങൾ കണ്ടെത്തിയ ഒരു ലക്ഷം ഫാർമേഴ്സിനെ സ്പാമർമാരുമായി താരതമ്യം ചെയ്യുക എന്നതാണ് ഇവിടെ ലക്ഷ്യം അവർ യഥാർത്ഥ സ്പാമർമാരാണ് അവരുടെ അക്കൌണ്ടുകൾ രേഖപ്പെടുത്തുകയും ഉപയോക്താക്കളുടെ ക്രമരഹിതമായ സാമ്പിൾ ഈ മൂന്ന് തരം ഉപയോക്താക്കളെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു ഈ 100000 ലിങ്ക് ഫാർമേഴ്സിന്റെ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ നിരീക്ഷണം വളരെ സഹായകമാകും നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സ്പാമർമാരുമായും ക്രമരഹിതമായ സാമ്പിളുകളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ടോപ്പ് ലിങ്ക് ഫാർമേഴ്സ് ഉയർന്ന ഡിഗ്രിയുണ്ടെന്ന് ഈ ഗ്രാഫ് അടിസ്ഥാനപരമായി കാണിക്കുന്നു അതിനാൽ നമുക്ക് വീണ്ടും വിശദമായി ഗ്രാഫിലൂടെ പോകാം X ആക്സിസ് ഇൻ ഡിഗ്രിയാണ് ഇത് വീണ്ടും ലോഗ് സ്കെയിൽ ആണ് ഇത് 101 മുതൽ 107 വരെ ആണ് ഫോളോവേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ക്ഷന് സി ഫ് ഡി Y ആക്സിസിൽ ഉണ്ട് നിങ്ങൾ ഇത് നോക്കുന്ന രീതി ചുവപ്പ് ഗ്രാഫിന്റെ മൂല്യം കൂടുന്തോറും 1000 ഫോളോവേഴ്സുള്ള 1000 ഉപയോക്താക്കളെ നോക്കിയാൽ ചുവന്ന ലൈൻ എന്നത് വളരെ ഉയർന്നതാണ് നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ സി ഫ് ഡി ഏകദേശം 0 1 ആണ് അതിനാൽ നിങ്ങൾ ഇൻ ഡിഗ്രി പ്രത്യേക ക്രമത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ സ്പാമർമാരെ അപേക്ഷിച്ച് ടോപ്പ് ലിങ്ക് ഫാർമേഴ്സ് വളരെ ഉയർന്ന ഡിഗ്രി ഉണ്ട് ക്രമരഹിതമായ സാമ്പിളുകൾ വളരെ വ്യത്യസ്തമാണ് കൂടാതെ സിഡിഎഫ് യഥാർത്ഥത്തിൽ ഡിഗ്രിയിൽ വളരെ കുറവാണ് ഇത് ഏകദേശം 102 മുതൽ 103 വരെ ശക്തമാണ് സ്പാമർമാരെയും ക്രമരഹിതമായ സാമ്പിളുകളെയും അപേക്ഷിച്ച് ടോപ്പ് ലിങ്ക് ഫാർമേഴ്സ് വളരെ ഉയർന്ന ഡിഗ്രി ഉണ്ട് രസകരമെന്നു പറയട്ടെ ഔട്ട് ഡിഗ്രിക്കും അവർ അത് കണ്ടെത്തി ഗ്രാഫ് വളരെ സാമ്യമുള്ളതാണ് അതായത് എന്റെ പക്കലുള്ളവരുടെ എണ്ണം സ്പാമർമാരുമായും ക്രമരഹിതമായ സാമ്പിളുകളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന ലിങ്ക് ഫാർമേഴ്സ് ഉയർന്ന ഡിഗ്രി ഉണ്ട് കൂടാതെ ഔട്ട് ഡിഗ്രി ഗ്രാഫിൽ നിന്ന് അല്പം വ്യത്യസ്തവുമാണ് എന്നാൽ വീണ്ടും 100000 ലിങ്ക് ഫാർമേഴ്സിന്റെ ഗ്രാഫ് സ്പാമർമാരുമായും ക്രമരഹിതമായ സാമ്പിളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ബിരുദത്തിന്റെ കാര്യത്തിൽ വളരെ കൂടുതലാണ് ഇൻ ഡിഗ്രി യുടെയും ഔട്ട് ഡിഗ്രി യുടെയും അനുപാതം കണ്ടെത്തുന്നതിനുള്ള രസകരമായ ഒരു വിശകലനവും അവർ നടത്തി ഈ അനുപാതം യഥാർത്ഥത്തിൽ വളരെ ഉപകാരപ്രദമാണ് കാരണം നിങ്ങൾ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ഒബാമ പോലുള്ള വലിയ ഫോളോവേഴ്സ് അക്കൌണ്ട് നോക്കുകയാണെങ്കിൽ അവരെ പിന്തുടരുന്ന അക്കൌണ്ടുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അവർ പിന്തുടരുന്ന അക്കൌണ്ടുകളുടെ എണ്ണം വളരെ കുറവാണ് നിയമാനുസൃതമായ അക്കൌണ്ടുകൾ നോക്കാനുള്ള ഒരു പാരാമീറ്ററാണിത് എന്റേതുപോലുള്ള നിയമാനുസൃതമായ അക്കൌണ്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ പിന്തുടരുന്നവരുടെ എണ്ണവും പിന്തുടരപെടുന്നവരുടെ എണ്ണവും പരസ്പരം വളരെ അടുത്താണ് അതിനാൽ ഇതാണ് അവർ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് വാക്യങ്ങളുടെ അനുപാതം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഉപയോക്താക്കളുടെ പാറ്റേൺ എന്താണ് മിക്ക മുൻനിര ഫാർമേഴ്സ് അനുപാതം 1 ന് അടുത്താണ് നിങ്ങൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 100 1 ആണ് രസകരമെന്നു പറയട്ടെ മുൻനിര ഫാർമേഴ്സ്ക്കുള്ള മൂല്യമാണിത് പിന്തുടരുന്നവരു പിന്തുടപെടുന്നവരുടെ തമ്മിലുള്ള അനുപാതം 1 ന് തുല്യമാകുന്നത് എന്തുകൊണ്ട് എന്നെപ്പോലുള്ള യഥാർത്ഥ ഉപയോക്താക്കൾക്കായി ഞാൻ നിങ്ങളോട് പറഞ്ഞ പാറ്റേൺ ഇതാണ് അതിനാൽ ലിങ്ക് ഫാർമേഴ്സ് സമാനമായ സ്വഭാവമുണ്ട് അതിനാൽ അതിൽ നിന്ന് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം ലിങ്ക് ഫാർമേഴ്സ് ആരാണെന്ന് കണ്ടെത്താൻ പ്രയാസമാണ് ഈ എല്ലാ വിശകലനത്തിനും പിന്നിൽ രൂപപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള അവബോധമാണ് വീണ്ടും നിങ്ങൾ ഈ ഗ്രാഫ് കാണുകയാണെങ്കിൽ x ആക്സിസിന് 10 1 10 2 10 3 എന്നിവയുടെ ശക്തി ഉണ്ട് ഇതാണ് ഇൻ ഡിഗ്രി വാക്യങ്ങൾ ഔട്ട് ഡിഗ്രി വളരെ വലുതാണ് അതിനാൽ ചുവപ്പ് നിറമുള്ള ടോപ്പ് ലിങ്ക് ഫാർമേഴ്സ് ഒന്നിന്റെ അനുപാതമുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതേസമയം നിങ്ങൾ സ്പാമറുകളും ക്രമരഹിതമായ സാമ്പിളും നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും 1 അല്ല അമിതാഭ് ബച്ചൻ ഒബാമ എന്നെപ്പോലെ ഞാൻ എടുത്ത ഉദാഹരണങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതിനാൽ വിതരണം എന്താണെന്ന കാര്യത്തിൽ അത് അർത്ഥവത്താണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി വിതരണമാണോ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും തമ്മിലുള്ള അനുപാതം എന്താണ് നിങ്ങൾ സ്ലൈഡുകളിലൂടെ പോയി മെറ്റീരിയലുകളിലൂടെ കടന്നുപോയാൽ അത് നിങ്ങൾക്ക് ഒരു ബോധം നൽകുന്നു എന്തെങ്കിലും ആശയക്കുഴപ്പമോ മറ്റെന്തെങ്കിലും വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അത് ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാൻ മടിക്കേണ്ടതില്ല ഈ ഉള്ളടക്കവും മനസ്സിലാക്കാൻ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളു ഇപ്പോൾ നിങ്ങൾ 100000 ലിങ്ക് ഫാർമേഴ്സ് ഇന്റെ ജീവചരിത്രവും ക്രമരഹിതമായ സാമ്പിളും നോക്കിയാൽ ആളുകൾ എന്തൊക്കെയാണെന്ന് താരതമ്യം ചെയ്യുന്നത് എന്ന് കാണാം യഥാർത്ഥത്തിൽ ഫാർമേഴ്സിനെ ബന്ധിപ്പിക്കുന്ന അക്കൌണ്ടുകൾ ഏതാണ് ക്രമരഹിതമായ സാമ്പിൾ സംസാരിക്കുന്ന അക്കൌണ്ടുകൾ ഏതാണ് ഇടത് യഥാർത്ഥത്തിൽ ലിങ്ക് ഫാർമേഴ് ആണ് വലത്തേത് യഥാർത്ഥത്തിൽ ക്രമരഹിതമായ സാമ്പിളാണ് ജീവിതം സംഗീതം തത്സമയം സ്നേഹം ഒരുപക്ഷേ ക്രമരഹിതമായ സാമ്പിളിലുള്ള മാർക്കറ്റ് ഓൺലൈൻ ഇന്റർനെറ്റ് സോഷ്യൽ സ്നേഹം എന്നിവയെക്കുറിച്ച് ഇടതുപക്ഷം കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാം അതിനാൽ ഈ വിശകലനത്തിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു നിഗമനം ഇടതുവശത്ത് അവരുടെ സ്വന്തം ബിസിനസ്സ് അല്ലെങ്കിൽ ഉള്ളടക്കം അല്ലെങ്കിൽ ഒരു ഡൊമെയ്നിലെ ട്രെൻഡുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിയമാനുസൃതമായ ബാഹ്യ ഉറവിടങ്ങളിലേക്കുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് തീർച്ചയായും അവർ അടിസ്ഥാനപരമായി ചില ബിസിനസിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ ഈ ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കുന്ന നെറ്റ്വർക്കിന് പുറത്തുള്ള ട്വിറ്ററിന് പുറത്തുള്ള ചില ലിങ്കുകളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അത് ശരിയാണ് ബാഹ്യ ഉറവിടങ്ങളിലേക്ക് ട്വീറ്റ് ചെയ്യരുത് അതായത് മറ്റ് ഉറവിടങ്ങളിലേക്ക് ധാരാളം ലിങ്കുകൾ ഇല്ല വീണ്ടും ഈ ഗവേഷണം രൂപപ്പെടുത്തിയ ഒരു മാതൃകയായിരിക്കും ഇത് എന്നാൽ പാറ്റേൺ നിങ്ങൾ ഇന്ന് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും വളരെ വ്യത്യസ്തമായിരിക്കാം ഓൺലൈൻ സോഷ്യൽ മീഡിയ വിഷയത്തിൽ സ്വകാര്യതയിലും സുരക്ഷയിലും നമ്മൾ ചോദിക്കേണ്ട ചില ക്ലാസിക്കൽ ചോദ്യങ്ങളിൽ ചിലത് ഞാൻ നോക്കുന്നു അതിനാൽ കോഴ്സിന്റെ പ്രഭാഷണത്തിന്റെ ഈ ഭാഗത്തിന്റെ അന്തിമ നിഗമനം എന്തെന്നാൽ ഈ ഭാഗം ലിങ്ക് ഫാർമേഴ്സിന്റെ സവിശേഷതകളാണ് ഇൻ ഡിഗ്രിയുടെയും ഔട്ട് ഡിഗ്രി യുടെയും അനുപാതം യഥാർത്ഥത്തിൽ വളരെ ഉയർന്നതാണെന്ന് നമ്മൾ കണ്ടെത്തി സ്പാമർമാരുമായും റാൻഡം സാമ്പിളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻ ഡിഗ്രി വളരെ ഉയർന്നതാണ് ഔട്ട് ഡിഗ്രിയും വളരെ ഉയർന്നതാണ് അവർക്ക് അയച്ച അഭ്യർത്ഥനകളുടെ കാര്യത്തിൽ സ്പാം ഫോളോവേഴ്സിന്റെ സാധ്യതയും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്പാം അനുയായി ആണെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരാനുള്ള ഉയർന്ന സാധ്യതയുണ്ട് അതിശയകരമെന്നു പറയട്ടെ ബ്ലോഗർമാരും വിദഗ്ധരും പോലുള്ള നിയമാനുസൃതമായ ജനപ്രിയവും വളരെ സജീവവുമായ ഉപയോക്താക്കൾ മിക്കവാറും ലിങ്ക് ഫാമിംഗിൽ ഏർപ്പെടുന്നു ബ്രിട്നി സ്പിയേഴ്സ് ഒബാമ തുടങ്ങിയ അക്കൌണ്ടുകൾ യഥാർത്ഥത്തിൽ ലിങ്ക് ഫാർമിംഗ് സ്വഭാവമുണ്ട് അതിനാൽ ഇത് സാമൂഹിക മൂലധനവും വർദ്ധിച്ച ഫാമിംഗുമായി ബന്ധപ്പെട്ട സ്വാധീനവും വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പ്രശ്നം ആശയം മനസ്സിലായില്ലെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും ആദ്യ സ്ലൈഡിലേക്ക് പോകും ഉയർന്ന സംഭാവ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹിക പ്രശസ്തി അനുവദിക്കുന്ന അവസരങ്ങളുണ്ടെങ്കിൽ ഉപയോക്താക്കൾ തമ്മിലുള്ള ബന്ധം കൂടുതലാണ് അവരുടെ സാമൂഹിക അംഗീകാരമോ സാമൂഹിക പ്രശസ്തിയുടെ സ്വാധീനമോ എല്ലാം നിങ്ങളുടെ അനുയായികളുടെ എണ്ണവും നിങ്ങളുടെ ഉള്ളടക്കത്തിന്റെ നല്ല പ്രചാരണവുമാണ് അതിനാൽ നിങ്ങളുടെ സാമൂഹിക മൂലധനവും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതിന് ലിങ്ക് ഫാമിംഗ് വളരെ ഫലപ്രദമാണ് അതോടെ ഞാൻ 7 1 ആഴ്ചയിലെ പ്രഭാഷണത്തിന്റെ ഈ പ്രത്യേക ഭാഗം നിര്ത്തുന്നു